നമസ്കാരം സർവീസ് മാർക്കറ്റിംഗ് വിത്ത് പ്രാക്ടിക്കൽ അപ്രോച് എന്നതിൻറെ ഈ സെഷനിലേക്ക് സ്വാഗതം എൻറെ പേര് ഡോ ബിപ്ലബ് ദത്ത ഈ വീഡിയോ കാണുന്നതിന് നന്ദി മാനേജിംഗ് കസ്റ്റമേഴ്സ് എന്നതിൻറെ പാഠത്തിലേക്ക് നമ്മൾ പോകുന്നു ഇവിടെ നമ്മൾ രണ്ട് ആശയങ്ങൾ കാണുന്നു അതായത് നിലവിലെ ഉപഭോക്താക്കളെ നിലനിർത്തുന്നത് ഉപഭോക്തൃ ലൈഫ് ടൈം മൂല്യം നിലവിലെ ഉപഭോക്താക്കളെ നിലനിർത്തുന്നത് പഴയ വിശ്വസ്തരായ ഉപഭോക്താക്കളിൽ നിന്ന് ഒരു കമ്പനി ആനുകൂല്യങ്ങൾ നേടുന്നത് അവർ കമ്പനിയുടെ സേവനങ്ങൾ ആവർത്തിച്ച് വാങ്ങുമ്പോൾ അവർ ആവർത്തിച്ചുള്ള സേവന ഡെലിവറികൾക്കായി വിദ്യാഭ്യാസം നേടുകയും അവരുടെ റോളുകൾ കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുന്നതിനാൽ സേവനം നൽകാൻ ചിലവ് കുറവാണ് അവർ തൃപ്തിപ്പെടുന്ന അതേ സേവനത്തിന് ഉയർന്ന വില നൽകാൻ തയ്യാറാണ് അവർ അതേ കമ്പനിയിൽ നിന്ന് മറ്റ് സേവനങ്ങൾ വാങ്ങുന്നു കൂടാതെ കമ്പനിയെ മറ്റ് ആളുകളിലേക്ക് റഫർ ചെയ്യുക അതുവഴി അവർ അവിടെ നിന്ന് വാങ്ങുകയും കമ്പനിയുടെ വരുമാനം വർധിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ നിലവിലെ ഉപഭോക്താക്കളെ നിലനിർത്തുക ഒരു ഉപഭോക്താവിന് കമ്പനിയോട് വിശ്വസ്തനായിത്തീരുമ്പോൾ അവനെ നിലനിർത്താൻ കഴിയും കമ്പനി നൽകുന്ന സേവനത്തിന്റെ ഗുണനിലവാരത്തിൽ സംതൃപ്തനായിരിക്കുകയും കമ്പനിയിൽ നിന്ന് യഥാർത്ഥ സാമ്പത്തിക മൂല്യം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ഒരു ഉപഭോക്താവ് കമ്പനിയോട് വിശ്വസ്തനായിത്തീരുന്നു പ്രൊഫസർമാരായ സുനിൽ ഗുപ്തയും വലേരി സീതാമലും 2006 ൽ എഴുതിയിട്ടുണ്ട് ഉപഭോക്തൃ സംതൃപ്തിയും ഉപഭോക്തൃ നിലനിർത്തലും ഒരു സ്ഥാപനത്തിന്റെ സാമ്പത്തിക പ്രകടനം മെച്ചപ്പെടുത്തുന്നു ഉദാഹരണത്തിന് അമേരിക്കൻ ഉപഭോക്തൃ സംതൃപ്തി സൂചികയിലെ 1 വർദ്ധനവ് 240 ഡോളർ മുതൽ 275 ഡോളർ വരെ സ്ഥിര മൂല്യത്തിൽ മെച്ചപ്പെടാൻ ഇടയാക്കും എല്ലാ ഉപഭോക്താക്കളും ഒരു കമ്പനിക്ക് ലാഭകരമാണെന്ന് നമ്മൾ ശ്രദ്ധിച്ചേക്കാം മുകളിൽ കാണിച്ചിരിക്കുന്ന 20 ഉപഭോക്താക്കൾ ലാഭത്തിന്റെ 220 സൃഷ്ടിക്കുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം ലാഭേച്ഛയില്ലാത്ത ഉപഭോക്താക്കൾ പിന്നീട് കാണിച്ചിരിക്കുന്നതുപോലെ ധാരാളം ലാഭം ഇല്ലാതാക്കുന്നു അതിനാൽ നമ്മുടെ ലാഭകരമായ ഉപഭോക്താക്കളെ തിരിച്ചറിയാനും അവരെ പരിപോഷിപ്പിക്കാനും നാം താൽപ്പര്യപ്പെടുന്നു അതേസമയം ലാഭകരമല്ലാത്ത ഉപഭോക്താക്കളുമായി കുറഞ്ഞ ചെലവിൽ സേവനങ്ങൾ നൽകുകയും അല്ലെങ്കിൽ ഉയർന്ന വിലകൾ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു ഒരു കമ്പനിയിൽ ഏറ്റവും വലിയ ഒറ്റ ഉപഭോക്താക്കളും കമ്പനിയിൽ നിന്നുള്ള ഏറ്റവും വലിയ നിക്ഷേപം വഹിക്കുന്നതായി ഗവേഷകർ കണ്ടെത്തി അതിനാൽ കമ്പനിയുടെ ലാഭം അവർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഉപഭോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്ന സേവനങ്ങൾ കാര്യക്ഷമമാക്കുമ്പോൾ കമ്പനി ഉദ്യോഗസ്ഥർ അവരുടെ ഏറ്റവും വലിയ ഉപഭോക്താവുമായി ഉയർന്ന വിലയ്ക്ക് ചർച്ച നടത്തി നമ്മുടെ കമ്പനിക്ക് ഒരു ഉപഭോക്താവിന്റെ മൂല്യം എങ്ങനെ കണക്കാക്കാമെന്ന് നമ്മൾ ചിന്തിക്കുന്നു അത് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോഡലിനെ ഇനിപ്പറയുന്ന വിഭാഗത്തിൽ വിവരിച്ചിരിക്കുന്നതുപോലെ ഉപഭോക്തൃ ലൈഫ് ടൈം മൂല്യം അല്ലെങ്കിൽ CLV എന്ന് വിളിക്കുന്നു അതിനാൽ ഉപഭോക്തൃ ലാഭം ഏറ്റവും ലാഭകരമായ ഉപഭോക്താക്കളിൽ നിന്ന് ഏറ്റവും കുറഞ്ഞതിലേക്ക് റാങ്കുചെയ്ത ഗ്രാഫ് ഇതാ അതിനാൽ ആദ്യത്തെ 80 ഉപഭോക്താക്കൾ ലാഭകരമാണെന്നും ആദ്യ 10 ഉപഭോക്താക്കൾ ഏറ്റവും ലാഭകരമാണെന്നും നമ്മൾ കണ്ടെത്തുന്നു അതേസമയം 200 ഉപഭോക്താക്കളിൽ അടുത്ത 10 ഉപഭോക്താക്കൾ ലാഭകരമല്ലാത്തതും ലാഭത്തിൽ നിന്ന് പയ്യെപ്പയ്യെ നശിപ്പിക്കുന്നതുമാണ് അതിനാൽ ഇത് സഞ്ചിത ലാഭത്തിന്റെ ശതമാനം കാണിക്കുന്ന വെയിൽ കർവ് ആണ് ഇവിടെ ഉപഭോക്താക്കളുടെ ശതമാനത്തിന്റെ മൊത്തം സംഖ്യ നമ്മൾ കാണുന്നു അതിനാൽ ആദ്യത്തെ 1 അല്ലെങ്കിൽ 5 ഉപഭോക്താക്കൾ ലാഭമുണ്ടാക്കാത്തപ്പോൾ 95 ഉപഭോക്താക്കളും നേരത്തെ ലഭിച്ച ലാഭത്തിൽ നിന്ന് എടുത്തു കൊണ്ടുപോകുന്നതായി നമ്മൾ കണ്ടെത്തി അതിനാൽ ഇത് വെയിൽ കർവ് ആണ് ഇത് ഉപഭോക്താക്കളെ നിയന്ത്രിക്കുന്നുവെന്ന് കാണിക്കുന്നു അതിനാൽ അവർ കമ്പനിക്ക് ലാഭകരമല്ല അതിനാൽ പ്രൊഫസർമാരായ സുനിൽ ഗുപ്തയും ഡൊണാൾഡ് ലേമാനും 2003 ൽ താഴെ പറയുന്ന ഫോർമുല ഉപയോഗിച്ച് ഉപഭോക്താവിന്റെ ആജീവനാന്ത മൂല്യം കണക്കാക്കാൻ കഴിയുമെന്ന് കാണിച്ചു CLV mr1i r ഇതിൽ m എന്നത് ഉപഭോക്താവിൽ നിന്ന് ലഭിക്കുന്ന നിരന്തരമായ മാർജിൻ ആണ് r എന്നത് നിലനിർത്തൽ നിരക്കാണ് അതാണ് ഉപഭോക്താവ് വീണ്ടും വാങ്ങാനുള്ള സാധ്യത i നിലവിലുള്ള പലിശ നിരക്ക് ഉപഭോക്താക്കളുടെ മുൻകാല ഷോപ്പിംഗ് ഡാറ്റയുടെ വിശകലനത്തിൽ നിന്നാണ് മാർജിൻ നിലനിർത്തൽ നിരക്കുകൾ കണക്കാക്കുന്നത് കമ്പനിയുമായി നിലനിർത്തുന്ന ഉപഭോക്താവിന്റെ മൂല്യം നിലനിർത്തൽ നിരക്കിന് നേരിട്ട് ആനുപാതികമാണെന്ന് മുകളിൽ പറഞ്ഞ ഫോർമുലയിൽ നിന്ന് വ്യക്തമാണ് മാർജിൻ മെച്ചപ്പെടുത്തുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഉപഭോക്തൃ ഏറ്റെടുക്കലിൽ നിക്ഷേപിക്കുന്നതിനേക്കാളും ഉപഭോക്തൃ നിലനിർത്തലിൽ നിക്ഷേപം നടത്തുന്നതാണ് പ്രധാനമെന്ന് പല ഗവേഷണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ഇത് സേവന വ്യവസായത്തിന്റെ ജീവിത ചക്രത്തെ ആശ്രയിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് പുതിയ ഉപഭോക്താക്കളെ സ്വന്തമാക്കുന്നത് നിലവിലുള്ള ഉപഭോക്താക്കളെ നിലനിർത്തുന്നതിനേക്കാൾ 5 മടങ്ങ് ചെലവേറിയതാണെന്ന് പഠനങ്ങൾ കണ്ടെത്തി അതിനാൽ ഒരു കമ്പനിയുടെ നിലവിലെ ഉപഭോക്താക്കളെ നിലനിർത്തുകയും അവരെ കമ്പനിയോട് വിശ്വസ്തരാക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് ഈ പാഠത്തിൽ ഉപഭോക്താക്കളെ നിലനിർത്തുന്നതിനുള്ള പ്രശ്നങ്ങളും ശരിയായ ഉപഭോക്താവിനെ നിലനിർത്തുന്നതിനായി ഒരു സേവന ബിസിനസ്സിലേക്ക് ഒരു ഉപഭോക്താവിന്റെ ആജീവനാന്ത മൂല്യം അളക്കുന്ന രീതിയും നമ്മൾ ചർച്ച ചെയ്തു ഒരു ഉപഭോക്താവിന് നൽകുന്ന സേവനത്തിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ സേവന വീണ്ടെടുക്കൽ എന്ന പ്രക്രിയയിലൂടെ നാശനഷ്ടങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് സേവന വീണ്ടെടുക്കൽ പ്രശ്നം അടുത്ത പാഠത്തിൽ കൈകാര്യം ചെയ്യും